പ്രെഡിക്റ്റിവ് മോഡലിംഗ് ഡാറ്റ അനലിറ്റിക്സിലെ ലെക്ച്ചറുകളിലേക്ക് സ്വാഗതം ഈ ലെക്ച്ചർ സീരീസിൽ ഞാൻ നിങ്ങൾക്ക് മോഡൽ ബ്യൂൽഡിങ് പരിചയപ്പെടുത്താൻ പോകുന്നു പ്രത്യേകിച്ച് റിഗ്രഷൻ ടെക്നിക്കുകൾ എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ലീനിയർ മോഡലുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ചില അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് ആരംഭിക്കാം കോറിലേഷൻ എന്ന ആശയം നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നു ലിറ്ററേച്ചറിൽ നിർവചിച്ചിരിക്കുന്ന വ്യത്യസ്ത തരം കോറിലേഷൻ കോയിഫിഷ്യൻറുകൾ ഇതിന് ഉപയോഗപ്രദമാണ് നിങ്ങൾ മോഡലുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രാഥമിക പരിശോധനക്ക് വേണ്ടിയാണിത് പിന്നീട് ഞാൻ റിഗ്രെഷനെ കുറിച്ച് പ്രത്യേകമായി ലീനിയർ റിഗ്രെഷനെ കുറിച്ച് സംസാരിക്കും കൂടാതെ റിഗ്രഷന്റെ അടിസ്ഥാന ആശയങ്ങൾ ഞാൻ അവതരിപ്പിക്കും തുടർന്ന് മൾട്ടി ലീനിയർ റിഗ്രഷനിലൂടെ കടന്നുപോകുന്നതിന് മുമ്പ് 2 വേരിയബിളുകളുടെ കാര്യം എടുക്കും അവിടെ നിരവധി ഇൻപുട്ട് വേരിയബിളുകളും ഒരു ആശ്രിത ഔട്ട്പുട്ട് വേരിയബിളുമുണ്ട് അവസാനമായി മോഡൽ നിർമ്മിച്ച ശേഷം മോഡൽ എത്ര നന്നായി പ്രവർത്തിക്കുന്നു നമ്മൾ ഉണ്ടാക്കിയ ചില അനുമാനങ്ങൾ എങ്ങനെ സാധൂകരിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു ഇതിനെ മോഡൽ അസ്സസ്മെന്റ് ആൻഡ് വാലിഡേഷൻ എന്ന് വിളിക്കുന്നു നമുക്ക് ആദ്യം കോറിലേഷന്റെ ചില അളവുകൾ നോക്കാം സ്റ്റാറ്റിസ്റ്റിക്സിലെ ബേസിക് ഇന്ററാക്ടിവ് ലെക്ച്ചറുകളിൽ നമ്മൾ ഇതിനകം ഒന്ന് കണ്ടു xi yi കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന x y എന്നീ 2 വേരിയബിളുകളുടെ n ഒബ്സർവേഷനുകൾ നമുക്ക് പരിഗണിക്കാം തീർച്ചയായും സാമ്പിൾ മീനുകൾ നമുക്ക് കണക്കാക്കാം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഇത് കണ്ടു ഇത് എല്ലാ മൂല്യങ്ങളുടെയും തുകയെ n കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് x മൂല്യങ്ങൾക്ക് ഇതിനെ x̅ കൊണ്ടും y മൂല്യങ്ങൾക്ക് ഇതിനെ y̅ കൊണ്ടും സൂചിപ്പിക്കുന്നു നമുക്ക് സാമ്പിൾ വേരിയൻസും ചെയ്യാം ഓരോ സംഖ്യയും ശരാശരിയും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് അവയെ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന മൂല്യങ്ങളുടെ ആകെത്തുകയെ മൂല്യങ്ങളുടെ എണ്ണം n കൊണ്ട് അല്ലെങ്കിൽ n 1 കൊണ്ട് ഹരിച്ചാണ് ഇത് കണക്കാക്കുന്നത് x y എന്നിവയുടെ സാമ്പിൾ വേരിയൻസിന് യഥാക്രമം Sxx Syy എന്നിവ കൊണ്ട് സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് Sxy സൂചിപ്പിക്കുന്ന ക്രോസ് കോവേരിയൻസ് നിർവചിക്കാം ഇത് x̅ യിൽ നിന്നുള്ള xi യുടെ വ്യതിയാനവും y̅ യിൽ നിന്നുള്ള yi യുടെ അനുബന്ധ വ്യതിയാനവും തമ്മിൽ ഓരോന്നും ഗുണിച്ച് കിട്ടുന്ന മൂല്യങ്ങളുടെ തുകയെ n കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് ഈ xi yi ഓർഡർ ടെസ്റ്റ് i th എക്സ്പെരിമെന്റൽ കണ്ടിഷനുമായി യോജിച്ചാണെന്നത് ശ്രദ്ധിക്കുക x y എന്നിവയ്ക്കായി നമ്മൾക്ക് മൂല്യങ്ങൾ ലഭിച്ചു അതാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ സജ്ജമാക്കിയ ചില എക്സ്പെരിമെന്റൽ കണ്ടിഷനുകളുമായി പൊരുത്തപ്പെടുന്നതായി കരുതുന്ന ഏതെങ്കിലും വിധത്തിൽ ഈ മൂല്യങ്ങൾ ഷഫിൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് n എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനുകളുണ്ട് നമ്മൾ കോറിലേഷൻ എന്ന് വിളിക്കുന്നതിനെ നിർവചിക്കാം കോറിലേഷൻ 2 വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു തീർച്ചയായും ശക്തമായ കോറിലേഷൻ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരു വേരിയബിൾ ഒരു കാരണമാണെന്ന് അർത്ഥമാക്കുന്നില്ല മറ്റൊന്ന് നിങ്ങൾക്ക് പരസ്പരബന്ധത്തെ ഒരു കാരണമായി കണക്കാക്കാൻ കഴിയാത്ത ഒരു ഫലമാണ് കാരണം അടിസ്ഥാനപരമായി ഇവ രണ്ടും പ്രവർത്തനക്ഷമമാക്കുന്ന മൂന്നാമത്തെ വേരിയബിൾ ഉണ്ടാകാം അതിനാൽ കോറിലേഷൻ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നാൽ വേരിയബിളിൽ ഒന്ന് ഒരു കാരണവും മറ്റൊന്ന് ഒരു ഫലവുമാണെന്ന് അനുമാനിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ന്യൂമെറിക്കൽ കംപ്യൂട്ടേഷൻ നടത്തുന്നതിന് മുമ്പ് സ്കാറ്റർ പ്ലോട്ട് എന്ന് വിളിക്കുന്നത് ഉപയോഗിച്ച് വേരിയബിളുകൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാം നമ്മൾ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് x അക്ഷത്തിൽ xi യുടെ മൂല്യങ്ങൾ y അക്ഷത്തിൽ yi യുടെ മൂല്യങ്ങൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം കൂടാതെ ഈ ഓരോ പോയിന്റുകൾക്കും ഈ പോയിന്റുകൾ ഏതെങ്കിലും പ്രത്യേക ദിശയിൽ ആണോ എന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഇവിടെ ഇടതുവശത്തുള്ള ചിത്രം സൂചിപ്പിക്കുന്നത് xi വർദ്ധിക്കുന്നതിനനുസരിച്ച് yi വർദ്ധിക്കുന്നത് ഇതിൽ ഒരു പ്രവണതയുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ചും xi വർദ്ധിക്കുന്നതിനാൽ ഒരു രേഖീയ പ്രവണത പോലും ഉണ്ടെന്ന് നമുക്ക് പറയാം അതിനനുസരിച്ച് വർദ്ധനവ് ഒരു രേഖീയ രീതിയിലാണ് ഇത് ഒരു പോസിറ്റീവ് പ്രവണതയാണ് കാരണം xi വർദ്ധിക്കുമ്പോൾ yi വർദ്ധിക്കുന്നു അടുത്ത ചിത്രത്തിൽ മധ്യചിത്രം നമ്മൾ കാണിക്കുന്നത് xi കൂടുമ്പോൾ yi കുറയുന്നു വീണ്ടും xi യും yi യും തമ്മിൽ ഒരു പാറ്റേൺ ബന്ധം ഉള്ളതായി തോന്നുന്നു ഇത് ഒരു നെഗറ്റീവ് പ്രവണതയാണ് അതേസമയം നിങ്ങൾ മൂന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ഡാറ്റ പരസ്പരം യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നുന്നു അതായത് yi മൂല്യങ്ങൾ xi മൂല്യങ്ങളെ ഏതെങ്കിലും പ്രത്യേക രീതിയിൽ ആശ്രയിക്കുന്നതായി തോന്നുന്നില്ല xi കൂടുമ്പോൾ ചില സന്ദർഭങ്ങളിൽ yi കൂടുകയും yi കുറയുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് അത് എല്ലായിടത്തും വ്യാപിക്കുന്നത് അതിനാൽ ചെറിയതോ പരസ്പര ബന്ധമോ ഇല്ലെന്ന് നമുക്ക് പറയാം ഇത് നമ്മൾക്ക് കണക്കാക്കാം കൂടാതെ നിങ്ങൾ നോക്കുന്ന വേരിയബിളിന്റെ തരത്തെയും അസോസിയേഷന്റെ തരത്തെയും ആശ്രയിച്ച് നിരവധി നടപടികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പിയേഴ്സൻസ് കോറിലേഷൻ Pearson's correlation എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും സാധാരണമായ കോറിലേഷൻ നോക്കാം ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തപോലെ x y എന്നീ വേരിയബിളുകൾക്കായി n നിരീക്ഷണങ്ങളുണ്ട് കൂടാതെ പിയേഴ്സൻസ് കോറിലേഷൻ കോയിഫിഷ്യന്റ് rxy കൊണ്ടോ ചിലപ്പോൾ ρxy കൊണ്ടോ സൂചിപ്പിക്കുന്നു ഇത് നിർവചിക്കുന്നത് x ഉം y യും തമ്മിലുള്ള കോവേരിയൻസിനെ x ന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും y യുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള പ്രോഡക്റ്റ് കൊണ്ട് ഹരിച്ചാൽ ഇത് കിട്ടും ന്യൂമറേറ്റർ x ഉം y ഉം തമ്മിലുള്ള കോവേരിയൻസിനെ പ്രതിനിധീകരിക്കുന്നു ഈ രീതിയിൽ നമുക്ക് കോവേരിയൻസിനായി നിർവചനം വിപുലീകരിക്കാം ഇത് എന്ന് നമുക്ക് കണ്ടെത്താനാകും ന്യൂമറേറ്റർ x y എന്നിവയുടെ കോവേരിയൻസിനെയും ഡിനോമിനേറ്റർ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും പ്രതിനിധീകരിക്കുന്നു ഈ വിഭജനത്തെ നമുക്ക് നോർമലൈസേഷൻ എന്ന് വിളിക്കാം ഈ മൂല്യം ഇപ്പോൾ ബൌണ്ടഡ് ആണ് rxy 11 എന്നിവയ്ക്കിടയിലുള്ള ഏതെങ്കിലും മൂല്യം എടുക്കുന്നുവെന്ന് നമുക്ക് കാണിക്കാൻ കഴിയും അത് 1 മൂല്യമെടുക്കുകയാണെങ്കിൽ 2 വേരിയബിളുകൾ നെഗറ്റീവ് കോറിലേഷനിലാണെന്ന് നമ്മൾ പറയുന്നു rxy ഒന്നിനോട് അടുത്ത് ഒരു മൂല്യം എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെന്ന് നമ്മൾ പറയുന്നു rxy മൂല്യം 0 ന് അടുത്താണെങ്കിൽ xi yi എന്നിവ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് സൂചിപ്പിക്കുന്നു ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം പിയേഴ്സൻസ് കോറിലേഷൻ യഥാർത്ഥത്തിൽ x ഉം y ഉം തമ്മിൽ ഒരു രേഖീയ ആശ്രിതത്വം ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗപ്രദമാണ് ഉദാഹരണത്തിന് x ന്റെ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ് y എങ്കിൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് 1 ന് അടുത്തോ അല്ലെങ്കിൽ 1 ന് അടുത്തോ ആയി മാറും y x നൊപ്പം വർദ്ധിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് നമ്മൾ അത് പറയുന്നു നമ്മൾ ഒരു ചിത്രത്തിൽ കണ്ടതുപോലെ ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണ് y x കൊണ്ട് രേഖീയമായി കുറയുകയാണെങ്കിൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് 1 ന് അടുത്തായിരിക്കുമെന്ന് നമ്മൾ പറയുന്നു മറുവശത്ത് കോറിലേഷൻ കോയിഫിഷ്യന്റ് 0 ന് അടുത്താണെങ്കിൽ y യും x ഉം തമ്മിൽ രേഖീയ ബന്ധമൊന്നുമില്ലെന്ന് നമുക്ക് നിഗമനം ചെയ്യാം പക്ഷേ രേഖീയമല്ലാത്ത ബന്ധം ഉണ്ടായിരിക്കാം കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് വരാം ഇത് നിർവചിച്ചിരിക്കുന്ന രീതിയനുസരിച്ച് റാങ്ക് ചെയ്ത വേരിയബിൾ എന്നർത്ഥമുള്ള ഓർഡിനൽ വേരിയബിളുകളിലും ഇത് പ്രയോഗിക്കാൻ കഴിയില്ല അതിനാൽ 0 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ നിങ്ങളുടെ സ്കെയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വേരിയബിൾ നിങ്ങൾക്കുണ്ടെന്ന് കരുതുക അത്തരം വേരിയബിളുകൾ സാധാരണയായി നിങ്ങൾ ഒരു പിയേഴ്സൻസ് കോറിലേഷൻ പ്രയോഗിക്കുന്നില്ല മറ്റ് തരത്തിലുള്ള കോറിലേഷൻ കോയിഫിഷ്യന്റ്കൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ റാങ്ക് ചെയ്ത അല്ലെങ്കിൽ ഓർഡർ ചെയ്ത വേരിയബിൾ ഓർഡിനൽ വേരിയബിളുകൾ എന്ന് വിളിക്കുന്നു സാധാരണഗതിയിൽ y യും x ഉം തമ്മിലുള്ള കോറിലേഷൻ കോയിഫിഷ്യൻറെ നല്ല കണക്ക് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കുറഞ്ഞത് 20 30 പോയിന്റുകൾ ആവശ്യമാണ് ഒരു മോശം ഡാറ്റാ പോയിന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരീക്ഷണാത്മകമായി നിങ്ങൾക്ക് പരീക്ഷണാത്മക പോയിന്റ് അറിയാമെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ സാമ്പിൾ ശരാശരി അല്ലെങ്കിൽ സാമ്പിൾ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെ അത് ഈ കോറിലേഷന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന മൂല്യങ്ങളിലേക്ക് നയിച്ചേക്കാം അതിനാൽ നമ്മൾ നേരത്തെ കണ്ട സാമ്പിൾ ശരാശരിയും സാമ്പിൾ വേരിയൻസും പോലെ ഔട്ട്ലയറുകളുമായി ബന്ധപ്പെട്ട് ഇത് ശക്തമല്ല നമുക്ക് ചില സാമ്പിൾ ഉദാഹരണങ്ങൾ നോക്കാം ഇത് ആൻസ്കംബ്സ് ഡാറ്റ സെറ്റ് Anscombe's data set എന്ന് വിളിക്കപ്പെടുന്ന വളരെ പ്രശസ്തമായ ഡാറ്റാ സെറ്റാണ് ഇവിടെ 11 ഡാറ്റാ പോയിന്റുകൾ ഉണ്ട് ഓരോന്നിനും 4 ഡാറ്റാ സെറ്റ് ഉണ്ട് ഞാൻ അവയിൽ 3 എണ്ണം മാത്രം കാണിച്ചിട്ടുണ്ട് അവയിൽ ഓരോന്നിനും xi yi എന്നിവയുമായി ബന്ധപ്പെട്ട 11 ഡാറ്റ പോയിന്റുകൾ ഈ പോയിന്റുകൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യത്തേതിൽ നിങ്ങൾ സ്കാറ്റർ പ്ലോട്ട് വരക്കുകയാണെങ്കിൽ ആദ്യ ഡാറ്റയിൽ y യും x നും തമ്മിൽ രേഖീയ ബന്ധം ഉണ്ടെന്ന് നിങ്ങൾ കാണും രണ്ടാമത്തെ ഡാറ്റയിൽ നിങ്ങൾ ഈ കണക്ക് നോക്കുകയാണെങ്കിൽ x ഉം y ഉം തമ്മിൽ ഒരു നോൺ ലീനിയർ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാം മൂന്നാമത്തേത് ലൈനിൽ നിന്ന് വളരെ അകലെയായി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഔട്ട്ലിയർ ആണെന്ന് തോന്നുന്ന ഒന്ന് ഒഴികെ എല്ലാ ഡാറ്റാ പോയിന്റുകൾക്കും ഒരു തികഞ്ഞ രേഖീയ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ഈ ഓരോ ഡാറ്റാ സെറ്റിനും പിയേഴ്സന്റെ കോറിലേഷൻ കോയിഫിഷ്യന്റ് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് സമാനമാണെന്ന് നമ്മൾ കണ്ടെത്തും നിങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യ ഡാറ്റാ സെറ്റിലോ രണ്ടാമത്തെ ഡാറ്റാ സെറ്റിലോ മൂന്നാം ഡാറ്റാ സെറ്റിലോ പ്രയോഗിക്കുമോ എന്നത് പ്രശ്നമല്ല വാസ്തവത്തിൽ നാലാമത്തെ ഡാറ്റാ സെറ്റിന് x ഉം y ഉം തമ്മിൽ യാതൊരു ബന്ധവുമില്ല അവയ്ക്ക് ഒരേ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഉള്ളതായി മാറുന്നു അതിനാൽ നമ്മൾ പിയേഴ്സന്റെ കോറിലേഷൻ പ്രയോഗിക്കുകയും ഈ സാഹചര്യത്തിൽ ഒന്നിനോട് ചേർന്നുള്ള ഉയർന്ന കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടെത്തുകയും ചെയ്താൽ അത് സൂചിപ്പിക്കുന്നതായി തോന്നുന്നു ഒരു രേഖീയ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് ഉടൻ നിഗമനം ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ഇതൊരു നോൺ ലീനിയർ ബന്ധമാണ് ഇപ്പോഴും ഉയർന്ന മൂല്യം നൽകുന്നു x ഉം y ഉം തമ്മിൽ ഒരു രേഖീയ ബന്ധമുണ്ടെങ്കിൽ പിയേഴ്സന്റെ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഉയർന്നതായിരിക്കും എങ്കിൽ ഒരു രേഖീയത ഉണ്ടെന്ന അർത്ഥത്തിൽ ഇത് സ്ഥിരീകരണമല്ല ഞാൻ ഉയർന്നത് എന്ന് പറയുമ്പോൾ അത് 1 അല്ലെങ്കിൽ 1 ആകാം എന്നാൽ x ഉം y ഉം തമ്മിൽ രേഖീയമല്ലാത്ത ബന്ധമുണ്ടെങ്കിൽ അത് ഉയർന്നതോ കുറവോ ആയിരിക്കാം ഈ ചിത്രീകരണ പോയിന്റ് യഥാർത്ഥത്തിൽ കാണിക്കുന്നതിന് നമ്മൾ ചില ഡാറ്റാ സെറ്റുകൾ കാണും 3 ഉദാഹരണങ്ങൾ നൽകുന്നു ആദ്യ ഉദാഹരണത്തിൽ ഞാൻ x ന് 0 നും 2π നും ഇടയിലുള്ള 125 തുല്യ അകലത്തിലുള്ള മൂല്യങ്ങൾ എടുത്തിട്ടുണ്ട് y നെ x ന്റെ cos ആയി കണക്കാക്കി അതിനാൽ ഇത് y ഉം x ഉം തമ്മിലുള്ള ബന്ധമാണ് ഈ സാഹചര്യത്തിൽ ഒരു സൈനുസോയിഡൽ ബന്ധമാണ് നിങ്ങൾ ഈ ഡാറ്റാ സെറ്റിനായി പിയേഴ്സൺ കോറിലേഷൻ കോയിഫിഷ്യന്റ് കണക്കാക്കിയാൽ x ഉം y ഉം തമ്മിൽ ബന്ധമില്ലെന്ന് സൂചിപ്പിക്കുന്ന വളരെ കുറഞ്ഞ മൂല്യം 0 ന് അടുത്ത് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ വ്യക്തമായും ഒരു ബന്ധമുണ്ട് കാരണം അത് രേഖീയമല്ലാത്തതാണ് വാസ്തവത്തിൽ 0 നും π2 നും ഇടയിലും π2 നും π യ്ക്കും ഇടയിലും π നും 3π2 നും ഇടയിലും 3π2 നും 2π യ്ക്കും ഇടയിലായിരിക്കുമ്പോൾ 0 വരിയ്ക്ക് മുകളിലുള്ള പോയിന്റുകൾ സിമെട്രിക് ആണ് പരസ്പരം റദ്ദാക്കുന്നതായി തോന്നുന്നു ഒടുവിൽ വളരെ ചെറിയ ഒരു കോറിലേഷൻ കോയിഫിഷ്യന്റ് ലഭിക്കുന്നു y കൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഇതു സൂചിപ്പിക്കുന്നില്ല x ഉം y ഉം തമ്മിൽ ഒരു രേഖീയ ബന്ധവും ഇല്ലായിരിക്കാം എന്നത് മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിഗമനം ചെയ്യാൻ കഴിയുന്നത് അതുപോലെ ഈ നോൺ ലീനിയർ y x2 ഇവിടെ ഞാൻ 0 നും 20 നും ഇടയിൽ x തിരഞ്ഞെടുത്തു അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ 40 പോയിന്റിനും തുല്യമായ സ്പെയ്സ്ഡ് പോയിന്റ് 0 5 വീതം ഞാൻ y x2 കണക്കാക്കുകയും പിയേഴ്സന്റെ കോറിലേഷൻ കണക്കാക്കുകയും ചെയ്യും ഈ x y ഡാറ്റയ്ക്ക് x ഉം y ഉം തമ്മിൽ ഒരു രേഖീയ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് ഉടനടി നിഗമനം ചെയ്യാൻ കഴിയില്ല ഇത് വളരെ ഉയർന്ന കോറിലേഷൻ കോയിഫിഷ്യന്റ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ടെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഒരുപക്ഷേ അത് രേഖീയമായിരിക്കാം അത് രേഖീയമല്ലാത്തതായിരിക്കാം നമ്മൾ കൂടുതൽ പര്യവേക്ഷണം ചെയ്യേണ്ടതുണ്ട് ഇത് 0 ന് അടുത്താണെങ്കിൽ രേഖീയ ബന്ധമില്ലെന്ന് ഞാൻ പറയുമായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ അത് വളരെ ഉയർന്നതാണ് അതിനാൽ ചില അസ്സോസിയേഷൻ ഉണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് അത് രേഖീയമാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല അത് രേഖീയമല്ലാത്തതാകാം നേരെമറിച്ച് 10 നും 0 നും ഇടയിൽ x തിരഞ്ഞെടുക്കുകയാണെങ്കിൽ y x2 ന് പോസിറ്റീവ് മൂല്യങ്ങൾ ഉണ്ടായിരിക്കും 0 നും 10 നും ഇടയിൽ x തിരഞ്ഞെടുക്കുകയാണെങ്കിലും y x2 ന് വീണ്ടും പോസിറ്റീവ് മൂല്യങ്ങൾ ഉണ്ടാകും ഈ റേഞ്ചിൽ x പോസിറ്റീവ് ആണെങ്കിൽ y യും പോസിറ്റീവ് ആണ് കൂടാതെ x ന്റെ നെഗറ്റീവ് മൂല്യങ്ങൾക്കും y ഇപ്പോഴും പോസിറ്റീവ് ആണ് അതിനാൽ ഇവ പരസ്പരം കൃത്യമായി റദ്ദാക്കുകയും y ഉം x ഉം തമ്മിൽ ഒരു നോൺ ലീനിയർ ബന്ധമുണ്ടെങ്കിലും ഈ കേസിൽ കോറിലേഷൻ കോയിഫിഷ്യന്റ് 0 ആയി മാറുകയും ചെയ്യും അതിനാൽ y ഉം x ഉം തമ്മിൽ ഒരു രേഖീയ ബന്ധം പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് നിലവിലുണ്ടെങ്കിൽ പിയേഴ്സന് കോറിലേഷൻ കോയിഫിഷ്യന്റ് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 1 ന് അടുത്തായിരിക്കും മറുവശത്ത് ഇത് 0 ന് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് y യും x ഉം തമ്മിലുള്ള ബന്ധം തള്ളിക്കളയാനാവില്ല അതുപോലെ മൂല്യം ഉയർന്നതാണെങ്കിൽ y യും x നും ഇടയിൽ ഒരു രേഖീയ ബന്ധം ഉണ്ടെന്ന് നമുക്ക് നിഗമനം ചെയ്യാൻ കഴിയില്ല y യും x നും ഇടയിൽ ഒരു ബന്ധമുണ്ടെന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ കഴിയൂ നമുക്ക് യഥാർത്ഥത്തിൽ മറ്റ് കോറിലേഷൻ കോയിഫിഷ്യന്റുകളിലേക്ക് നോക്കാം പിയേഴ്സന്റെ കോറിലേഷൻ കോയിഫിഷ്യന്റ് നമ്മൾ ഇവിടെയുള്ളത് പോലെ റാങ്ക് ചെയ്യാത്ത വേരിയബിളുകൾ ഓർഡിനൽ വേരിയബിളുകൾ എന്ന് വിളിക്കുന്ന റിയൽ വാല്യൂ വേരിയബിളുകൾക്ക് മാത്രമേ പ്രയോഗിക്കാൻ കഴിയൂ എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ ഓർഡിനൽ വേരിയബിളുകൾക്ക് പോലും പ്രയോഗിക്കാൻ കഴിയുന്ന മറ്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്കൾ നോക്കാം 2 വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അളവ് നമ്മൾ വീണ്ടും നോക്കുന്ന ഒരു കേസ് ആണിവിടെ എന്നാൽ ഈ സമയം x y വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാം ഈ ബന്ധം ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കാം അപ്പോൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ Spearman's Rank Correlation പ്രവണത വളരെ ഉയർന്നതായി കാണിക്കും അതിനാൽ x വർദ്ധിക്കുമ്പോൾ y വർദ്ധിക്കുന്ന ഇത് ഒരു കേസ് എന്നാൽ ഈ സാഹചര്യത്തിൽ വലത് ചിത്രം ഒരു നോൺ ലീനിയർ ബന്ധമാണ് ഇടത് ചിത്രം ഒരു രേഖീയ ബന്ധത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ പ്രയോഗിക്കാം അതേ ഡാറ്റാ സെറ്റിലേക്ക് അത് പ്രയോഗിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനിൽ നമ്മൾ ചെയ്യുന്നത് റിയൽ വാല്യൂ ഡാറ്റയാണെങ്കിൽപ്പോലും ഡാറ്റയെ റാങ്കുകൾ എന്ന് വിളിക്കുന്നതിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നതാണ് ഉദാഹരണത്തിന് എനിക്ക് 10 ഡാറ്റാ പോയിന്റുകൾ ഉണ്ടെന്ന് പറയട്ടെ xi എന്നത് ഒരാൾ 1 നും 10 നും ഇടയിൽ ഒരു സ്കെയിൽ എടുത്തത് പോലെയാണ് അതുപോലെ yi എന്നത് 1 നും 10 നും ഇടയിലുള്ള ഒരു മൂല്യമാണ് x ന്റെ എല്ലാ വ്യക്തിഗത മൂല്യങ്ങളും നോക്കുകയും അതിന് ഒരു റാങ്ക് നൽകുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഈ കേസിൽ ഏറ്റവും കുറഞ്ഞ x മൂല്യം 2 ആണ് ഇതിന് റാങ്ക് 1 നൽകിയിരിക്കുന്നു അടുത്ത ഉയർന്ന x മൂല്യം 3 ആണ് അതിന് റാങ്ക് 2 നൽകുന്നു2 അങ്ങനെ മറ്റെല്ലാ മൂല്യങ്ങൾക്കും റാങ്ക് നൽകുന്നു അതിനാൽ ഈ പോയിന്റുകളെല്ലാം റാങ്ക് ചെയ്യപ്പെടുന്നു ആറാമത്തെയും ആദ്യത്തേയും മൂല്യം രണ്ടും സമനിലയിലാണെന്ന് ശ്രദ്ധിക്കുന്നു അവക്ക് 6 ഉം 7 ഉം റാങ്കുകൾ ലഭിക്കുന്നു സമനിലയുള്ളതിനാൽ നമ്മൾ അതിന് 6 5 റാങ്ക് നൽകി അതായത് പകുതി പകുതി സമാനമായി 2 ൽ കൂടുതൽ മൂല്യങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റാങ്കുകളെല്ലാം എടുത്ത് അവയെ തുല്യ മൂല്യങ്ങളുള്ള ഡാറ്റാ പോയിന്റുകളുടെ എണ്ണം കൊണ്ട് ശരാശരിയാക്കുകയും അതിനനുസരിച്ച് റാങ്കുകൾ നൽകുകയും ചെയ്യും ഉദാഹരണത്തിന് നമ്മൾ അനുബന്ധ y മൂല്യങ്ങളും റാങ്ക് ചെയ്തു ഈ സാഹചര്യത്തിൽ പത്താം മൂല്യത്തിന് റാങ്ക് 1 ഉണ്ട് അങ്ങനെയെങ്കിൽ എട്ടാം മൂല്യത്തിന് റാങ്ക് 2 ഉണ്ട് സമാനമായ രീതിയിൽ എല്ലാ മൂല്യങ്ങൾക്കും റാങ്ക് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ റാങ്കുകളിലെ വ്യത്യാസം കണക്കാക്കുക ഈ കേസിൽ ആദ്യത്തെ ഡാറ്റാ പോയിന്റിന്റെ റാങ്കിലെ വ്യത്യാസം 2 ആണ് നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യുന്നു അതുപോലെ തന്നെ xi yi എന്നിവയ്ക്കിടയിലുള്ള റാങ്കുകളിലെ രണ്ടാമത്തെ ഡാറ്റ പോയിന്റിലെ വ്യത്യാസം നമ്മൾ എടുക്കുന്നു അത് 2 ആണ് സ്ക്വയർ നമുക്ക് 4 ലഭിക്കും ഇതുപോലെ നമ്മൾ എല്ലാ വ്യതാസങ്ങളും എടുത്ത് അവയെയെല്ലാം സ്ക്വയർ ചെയ്യുന്നു നമുക്ക് d2 d സ്ക്വയർ മൂല്യങ്ങൾ ലഭിക്കും തുടർന്ന് അവയുടെയെല്ലാം തുക കണക്കാക്കുന്നു തുടർന്ന് നമ്മൾ ഈ കോയിഫിഷ്യന്റ് കണക്കാക്കുന്നു അത് 1 നും 1 നും ഇടയിലായി മാറുന്നു 1 ഒരു നെഗറ്റീവ് അസോസിയേഷനും 1 വേരിയബിളുകൾ തമ്മിലുള്ള പോസിറ്റീവ് അസോസിയേഷനും സൂചിപ്പിക്കുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ 0 88 ആയി മാറുന്നു നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 0 എന്നാൽ അസ്സോസിയേഷൻ ഇല്ല എന്നാണ് y ഉം x ഉം തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ r s മൂല്യങ്ങൾ അഥവാ സ്പിയർമാൻസ് മൂല്യങ്ങൾ പിയേഴ്സൻസ് കോറിലേഷൻ പോലെ 1 ആയിരിക്കും അതുപോലെ y x നൊപ്പം കുറയുമ്പോൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ 1 ന് അടുത്തായിരിക്കും പിയേഴ്സണും സ്പിയർമാനും തമ്മിലുള്ള വ്യത്യാസം ഓർഡിനൽ വേരിയബിളുകളിൽ മാത്രമേ പ്രയോഗിക്കാവൂ എന്നത് മാത്രമല്ല y ഉം x ഉം തമ്മിൽ ഒരു നോൺ ലീനിയർ ബന്ധമുണ്ടെങ്കിൽപ്പോലും സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ന്യായമായും ഉയർന്നതായിരിക്കാം അത് 0 ആയിരിക്കില്ല അതിനാൽ y ഉം x ഉം തമ്മിലുള്ള ബന്ധത്തെ വേർതിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കാം ഈ കേസിൽ അൻസ്കോംബ് ഡാറ്റയിലേക്ക് ഇത് പ്രയോഗിക്കാം ആദ്യത്തേതിന് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ വളരെ ഉയർന്നതാണ് രണ്ടാമത്തേതിലും ന്യായമായും ഉയർന്നതാണ് വാസ്തവത്തിൽ പിയേഴ്സൺ ഇതിനെല്ലാം ഒരുപോലെയാണെന്നും മൂന്നാമത്തേത് 0 99 ഉയർന്നതാണെന്നുമുള്ള സൂചന കൂടിയാണ് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് x ഉം y ഉം തമ്മിൽ ശരിക്കും ശക്തമായ ഒരു ബന്ധം ഉണ്ടെന്നാണ് cos x ഉദാഹരണത്തിനും xy2 ഉദാഹരണത്തിനും ഇത് പ്രയോഗിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ഇവയ്ക്കുള്ള സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ന്യായമായും ഉയർന്നതായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും അത് 1ന് അടുത്തായിരിക്കില്ല പക്ഷേ അത് ഉയർന്നതായിരിക്കും പിയേഴ്സൻ കോറിലേഷൻ കുറവാണെങ്കിലും അവ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള നോൺ ലീനിയർ ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഓർഡിനൽ വേരിയബിളുകൾക്കായി ഉപയോഗിക്കുന്ന മൂന്നാമത്തെ തരം കോറിലേഷൻ കോയിഫിഷ്യനെ കെൻഡൽസ് റാങ്ക് കോറിലേഷൻ Kendall's rank എന്ന് വിളിക്കുന്നു ഈ കോറിലേഷൻ കോയിഫിഷ്യന്റ് ഓർഡിനൽ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധവും അളക്കുന്നു ഈ കേസിൽ നമ്മൾ ഇതിനെ ഒരു കോൺകോർഡന്റും ഡിസോർഡന്റുമായ ജോഡികൾ എന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ മൂല്യങ്ങൾ നോക്കിയാൽ 2 നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്യുക നമുക്ക് x1 y1 എന്ന് പറയാം ക്ഷമിക്കണം ഇവിടെ അത് x1y1 ഉം x2y2 ഉം ആയിരിക്കും x1x2 y1y2 എന്നിങ്ങനെയോ അല്ലെങ്കിൽ x1x2 y1y2 എന്നിങ്ങനെയോ ആണെങ്കിൽ അവ ഒരു കൺകോർഡൻറ് പെയർ ആണെന്നു പറയും അതായത് x വർദ്ധിക്കുമ്പോൾ y യും അതിനനുസരിച്ച് വർദ്ധിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ x കുറയുമ്പോൾ y യും കുറയുന്നുവെങ്കിൽ ഈ 2 ഡാറ്റാ പോയിന്റുകൾ കൺകോർഡൻറ് ആണെന്ന് പറയപ്പെടുന്നു നേരെമറിച്ച് വിപരീതമായ ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ 2 ഡാറ്റാ പോയിന്റുകൾ x1 y1 x2 y2 എന്നിവ എടുക്കുന്നു നമ്മൾ ഡാറ്റാ പോയിന്റുകൾ നോക്കുകയുംx1x2 y1y2 എന്നിങ്ങനെയോ അല്ലെങ്കിൽ x1x2 y1y2 എന്നിങ്ങനെയോ ആണെങ്കിൽ അവ ഒരു ഡിസ്കോർഡൻറ് പെയർ ആണെന്നു പറയും അതിനാൽ നിങ്ങളുടെ സാമ്പിളിലെ ഓരോ ജോഡി നിരീക്ഷണങ്ങളും നമ്മൾ എടുക്കുന്നു തുടർന്ന് ഒരു കൺകോർഡൻറ് ജോഡി ആണോ അതോ കൺകോർഡൻറ് ജോഡി ഉണ്ടോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നു നമുക്ക് ഒരു ഉദാഹരണമെടുത്ത് അത് നോക്കാം നമുക്ക് കോൺകോർഡന്റ് ജോഡികളുടെ എണ്ണവും ഡിസകോർഡന്റ് ജോഡികളുടെ എണ്ണവും ലഭിച്ചുകഴിഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസത്തെ n2 കൊണ്ട് ഹരിക്കുന്നു അതിനെ കണ്ടൽസ് ട്ടോ Kendalls τ എന്ന് വിളിക്കുന്നു നമുക്ക് ഇവിടെ ഒരു ഇനം എടുക്കാം ഏകദേശം 7 നിരീക്ഷണങ്ങൾ ഉണ്ട് നമുക്ക് 7 വ്യത്യസ്ത വൈനുകൾ അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കാപ്പി എന്ന് പറയാം ചായയുടെയോ കാപ്പിയുടെയോ വൈനിന്റെയോ രുചി 1 മുതൽ 10 വരെ റാങ്ക് ചെയ്ത രണ്ട് എക്സ്പെർട്ടുകളുണ്ട് ആദ്യത്തേതിന് എക്സ്പെർട്ട് നമ്പർ 1 ഇതിന് 1 എന്ന റാങ്ക് നൽകുന്നു കൂടാതെ എക്സ്പെർട്ട് 2 ഉം 1 റാങ്ക് നൽകുന്നു രണ്ടാമത്തേതിന് എക്സ്പെർട്ട് 1 അതിനെ 2 റാങ്ക് ചെയ്യുന്നു എക്സ്പെർട്ട് 2 അതിനെ 3 റാങ്ക് നൽകുന്നു അങ്ങനെ 7 വ്യത്യസ്ത തരങ്ങൾക്ക് റാങ്കുകൾ നൽകുന്നു ഇപ്പോൾ നിങ്ങൾ ഡാറ്റാ പോയിന്റ് 1 ഉം ഡാറ്റാ പോയിന്റ് 2 ഉം താരതമ്യം ചെയ്യുന്നു ഈ കേസിൽ 2 എന്നത് 1 നേക്കാൾ മികച്ചതാണെന്ന് നമുക്ക് പറയാം എക്സ്പെർട്ട് 2 ഉം 2 എന്നത് 1 നേക്കാൾ മികച്ചതാണെന്ന് പറയുന്നു അതിനാൽ ഇത് ഒരു കോൺകോർഡന്റ് ജോഡിയാണ് അതിനാൽ 1 ഉം 2 ഉം കൺകോർഡൻറ് ആണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഡാറ്റാ പോയിന്റ് 1 ഉം 3 ഉം നോക്കിയാൽ എക്സ്പെർട്ട് 1 പറയുന്നത് 1 നേക്കാൾ മികച്ചത് 3 ആണ് എന്ന് എക്സ്പെർട്ട് 2 ഉം പറയുന്നു 1 നെക്കാൾ 3 മികച്ചതാണെന്ന് അതുപോലെ നിങ്ങൾ 2 ഉം 3 ഉം നോക്കുകയാണെങ്കിൽ 3 എന്നത് 2 നേക്കാൾ മികച്ചതാണ് എന്ന് രണ്ടു എക്സ്പെർട്ടുകളും അഗ്രി ചെയ്യുന്നു അതിനാൽ ഇത് കൺകോർഡൻറ് ആണ് നമുക്ക് നാലാമത്തേത് നോക്കാം ആദ്യത്തേത് എക്സ്പെർട്ട് 1 ഇത് മികച്ചതാണെന്ന് പറയുന്നു വിദഗ്ദ്ധൻ 2 ഉം ഇത് മികച്ചതാണെന്ന് പറയുന്നു എന്നാൽ രണ്ടാമത്തേതും നാലാമത്തേതും നിങ്ങൾ താരതമ്യം ചെയ്താൽ നാലാമത്തേത് രണ്ടാമത്തേതിനേക്കാൾ മികച്ചതാണെന്ന് എക്സ്പെർട്ട് 1 പറയുന്നു എന്നാൽ എക്സ്പെർട്ട് 2 വിയോജിക്കുന്നു നാലാമത്തെ കാര്യം രണ്ടാമത്തേതിനേക്കാൾ മോശമാണെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ ഒരു ഡിസ്കോർഡൻറ് ജോഡി ഡാറ്റയുണ്ട് ഇതിനെ D കൊണ്ട് സൂചിപ്പിക്കുന്നു അതിനാൽ 4 ഉം 2 ഉം ഡിസ്കോർഡന്റ് ആണ് 4 ഉം 3 ഉം ഡിസ്കോർഡന്റ് ആണ് അതുപോലെ ഇവിടെ 5 ഉം 1 ഉം കൺകോർഡൻറ് ആണ് എന്ന് പറയുന്നു 5 2 കൺകോർഡൻറ് ആണ് അങ്ങനെ മുന്നോട്ട് ആകെ n2 ജോഡികൾ ലഭിക്കും നമ്മൾ ഈ ജോഡികളെല്ലാം കൺകോർഡൻറ് എന്നോ ഡിസ്കോർഡൻറ് എന്നോ ആയി തരംതിരിച്ചിട്ടുണ്ട് കൂടാതെ 6 ഡിസ്കോർഡൻറ് ജോഡികളും 15 കൺകോർഡന്റ് ജോഡികളും ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾക്ക് കെൻഡൽസ് കോയിഫിഷ്യന്റ് τ കണക്കാക്കാം ഇത് ഉയർന്നതാണെങ്കിൽ രണ്ട് എക്സ്പെർട്ടുകളും തമ്മിൽ വിശാലമായ ധാരണയുണ്ട് എന്നാണ് അടിസ്ഥാനപരമായി ഇത് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മൾ പറയുന്നത് y ഉം x ഉം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശക്തമായ ഒരു ബന്ധമുണ്ട് എന്നാണ് അല്ലാത്തപക്ഷം അത് ശക്തമായി ബന്ധപ്പെടുത്തിയിട്ടില്ല എക്സ്പെർട്ട് 2 എക്സ്പെർട്ട് 1 മായി പൂർണ്ണമായി വിയോജിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മൂല്യങ്ങൾ പോലും ലഭിച്ചേക്കാം അതിനാൽ ഉയർന്ന നെഗറ്റീവ് മൂല്യം അല്ലെങ്കിൽ ഉയർന്ന പോസിറ്റീവ് മൂല്യം ഈ കേസിൽ x y എന്നീ 2 വേരിയബിളുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇത് ഓർഡിനൽ വേരിയബിളുകൾക്കായി ഉപയോഗിക്കാം കാരണം ഈ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇവിടെ റാങ്ക് ചെയ്ത മൂല്യങ്ങളുമായി ഇത് പ്രവർത്തിക്കും ഈ അൻസ്കോംബ് ഡാറ്റാ സെറ്റിലേക്ക് കെൻഡൽസ് റാങ്കിലേക്ക് ഇത് വീണ്ടും പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ലീനിയർ കേസിന് പിയേഴ്സണും സ്പിയർമാൻ കോറിലേഷൻ കോയിഫിഷ്യന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂല്യം കുറഞ്ഞു അതിന് ഇപ്പോഴും ഉയർന്ന മൂല്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഉയർന്നത് സാധാരണയായി നിങ്ങൾ എക്സ്പെരിമെന്റൽ ഡാറ്റയിൽ 6 6 അല്ലെങ്കിൽ 0 7 എന്നതിനപ്പുറം ഒരു മൂല്യം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല സാധാരണയായി വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം നമ്മൾ വളരെ അപൂർവമായി മാത്രമേ അറിയൂ അതിനാൽ ഈ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് കേസിൽ കെൻഡൽസ് റാങ്കിന് ന്യായമായ ഉയർന്ന കോറിലേഷൻ കോയിഫിഷ്യന്റ് നിങ്ങൾ വീണ്ടും കണ്ടെത്തുന്നു അവസാനത്തേത് തികച്ചും ലീനിയർ ആണ് നിങ്ങൾ അവക്കിടയിൽ വളരെ ഉയർന്ന ബന്ധം നേടുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മോഡൽ നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു പ്രാഥമിക ആശയം ലഭിക്കുന്നതിന് ഇത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാം തീർച്ചയായും 2 വേരിയബിളുകൾക്കായി നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്യാൻ എളുപ്പമാണ് നിങ്ങൾ ഈ കോറിലേഷൻ കോയിഫിഷ്യന്റ് കണക്കാക്കാനും സാധ്യമായ അസോസിയേഷന്റെ തരം സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നേടാനും ശ്രമിക്കുക തുടർന്ന് മുന്നോട്ട് പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന മോഡലുകളുടെ തരം തിരഞ്ഞെടുക്കുക നിർമ്മിക്കുക ലീനിയർ റിഗ്രഷനിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇതാണ് ലീനിയർ റിഗ്രഷൻ മോഡൽ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കാണാം